ഇപ്പോൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ അടിസ്ഥാനം കറണ്ട് ഇൻപുട്ടിലൂടെയും റെസിസ്റ്റർ R ഉപയോഗിച്ച് ഓപ് ആമ്പിന് ചുറ്റുമുള്ള ഫീഡ്ബാക്കിലൂടെയും പ്രവർത്തിക്കുന്ന ഈ പ്രത്യേക സർക്യൂട്ടാണ് ഇപ്പോൾ ഈ സർക്യൂട്ട് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ തത്വങ്ങൾ ഉപയോഗിച്ച് ഉരുത്തിരിഞ്ഞു വരാം എന്നാൽ ഈ സാഹചര്യത്തിൽ ഞാൻ അത് ചെയ്യുന്നില്ല പകരം ഈ സർക്യൂട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ഈ കറണ്ട് Is ആണെന്നും ഈ വോൾട്ടേജ് V0 ആണെന്നും പറയാം അപ്പോൾ സർക്യൂട്ടിന്റെ വിശകലനം വളരെ എളുപ്പമാണ് വാസ്തവത്തിൽ രണ്ട് നോഡുകൾ മാത്രമേയുള്ളൂ അതിനാൽ ഈ നോഡിൽ ഞാൻ കിർച്ച്ഹോഫ്സ് കറണ്ട് ലോ Kirchhoffs current law സമവാക്യം എഴുതുകയാണെങ്കിൽ എനിക്ക് കാണാൻ കഴിയും ഈ നോഡ് വോൾട്ടേജ് നെ ഞാൻ Vx എന്ന് വിളിക്കട്ടെ ഈ നോഡിൽ നിന്ന് റെസിസ്റ്ററുകൾ വഴി പുറത്തേക്ക് പോകുന്ന കറണ്ട് ആയ R ഈ നോഡിൻറെ ഉള്ളിലേക്ക് വരുന്ന കറണ്ട് ആയ Is ന് തുല്യമാണ് നമുക്ക് മറ്റൊരു നോഡും ഉണ്ട് അത് ഓപ് ആമ്പിന്റെ ഔട്ട്പുട്ട് ആണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കിർച്ച്ഹോഫ്സ് കറണ്ട് ലോ സമവാക്യം ഇവിടെ എഴുതാൻ കഴിയില്ല പകരം നമ്മൾ ഓപ് ആമ്പ് ഇൻപുട്ടിൽ വെർച്വൽ ഷോർട്ട് സമവാക്യം എഴുതുന്നു അത് Vx 0 എന്നായി വരുന്നു ഓപ് ആമ്പിൻറെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് കാരണം അതിന് 0 വോൾട്സ് ഉണ്ട് മറ്റേ ടെർമിനലിന് ഇവിടെയുള്ള അതേ വോൾട്ടേജ് ഉണ്ടായിരിക്കണം ഇവ രണ്ടും നിങ്ങൾ പരിഹരിച്ചാൽ V0 എന്നത് Is x R ആണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാനാകും അതിനാൽ ഇത് പതിവായി ഉപയോഗിക്കാറുള്ള വളരെ നല്ല ഒരു സർക്യൂട്ടാണ് മറ്റൊരു മാതൃക സർക്യൂട്ട് നോൺ ഇൻവേർട്ടിംഗ് ഓപ് ആമ്പ് ആംപ്ലിഫയറാണ് നമ്മൾ അത് നേരത്തെ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ഇതിന് കറണ്ട് ഇൻപുട്ടും വോൾട്ടേജ് ഔട്ട്പുട്ടും ഉണ്ട് ഇത് യഥാർത്ഥത്തിൽ കറണ്ടിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടമാണ് അതിനാൽ ഇതിൻറെ പരിഹാരം V0 Is R എന്നാണ് പിന്നെ തീർച്ചയായും Vx പൂജ്യത്തിന് തുല്യമാണ് ഓപ് ആമ്പിന്റെ ഇൻവെർട്ടിംഗ് ടെർമിനൽ 0 വോൾട്ടിലാണ് അതിനാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് കറണ്ടിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടമാണ് എന്താണ് ഇതിനർത്ഥം ഒന്നാമതായി ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിലയിരുത്താം ഇൻപുട്ട് റെസിസ്റ്റൻസ് കണക്കാക്കാൻ ഈ രണ്ട് ടെർമിനലുകൾ ക്കിടയിൽ ഒരു ടെസ്റ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് കറണ്ട് പ്രയോഗിക്കണം ഞാൻ ഒരു ടെസ്റ്റ് കറണ്ട് ഉപയോഗിക്കും കാരണം ആ ഫലം എനിക്ക് ഇതിനകം ലഭ്യമാണ് വാസ്തവത്തിൽ നിങ്ങൾ ടെസ്റ്റ് വോൾട്ടേജ് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ വൈരുദ്ധ്യത്തിൽ അവസാനിക്കുമെന്ന് കണ്ടെത്തും അതിനാൽ നിങ്ങൾക്ക് ടെസ്റ്റ് കറണ്ട് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ അതിനാൽ നിങ്ങൾക്ക് ITEST പ്രയോഗിച്ച് ഈ രണ്ട് നോഡുകൾക്കിടയിലുള്ള വോൾട്ടേജുകൾ എന്താണെന്ന് കാണാൻ കഴിയും അതിനുള്ള പരിഹാരം എനിക്ക് ഇതിനകം ഉണ്ട് ഈ സർക്യൂട്ട് കൃത്യമായി അതിന് തുല്യമാണ് ITEST ൻറെ ദിശ Is ൻറെ ദിശയ്ക്ക് വിപരീതമാണ് പക്ഷേ അത് അപ്രസക്തമാണ് കാരണം Is ന്റെ മൂല്യം എന്തുതന്നെ ആണെങ്കിലും ഈ Vx പൂജ്യമാണ് അത് ഓപ് ആമ്പിന്റെ ഇൻപുട്ടിലെ ഈ പോയിന്റ്നും ആ പോയിന്റ്നും ഇടയിലുള്ള വെർച്വൽ ഷോർട്ട് കാരണം ആണ് അതായത് അടിസ്ഥാനപരമായി ആ വോൾട്ടേജ് Vx പൂജ്യമാണ് അതിനാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് Ri എന്നത് Vx ITEST ആണ് അത് പൂജ്യമാണ് അതിനാൽ ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഉറവിടം എന്തുതന്നെ ആണെങ്കിലും അതിലേക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് കൊടുക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ കറണ്ട് നിയന്ത്രണ ഉറവിടമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് പൂജ്യം ആണെങ്കിൽ കറണ്ട് ഉറവിടം അപൂർണ്ണമാണെങ്കിലും സർക്യൂട്ട് അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കും കറണ്ട് ഉറവിടത്തിന് കുറുകെ ചില റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് പറയാം അതായത് ഇത് ഒരു ഉത്തമമായ കറണ്ട് ഉറവിടമല്ല എന്നാൽ ഇത് ചില Is കളും ചില R കളും ഉള്ള ഏതോ സർക്യൂട്ടിൻറെ നോർട്ടൺ തത്തുല്യം ആണ് വീണ്ടും ഞാൻ ഇവിടെ ഒരു ഉത്തമമായ ഓപ് ആമ്പിനെ പരിഗണിക്കുന്നു ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ് അത് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാൻ കഴിയും ഇപ്പോൾ ഈ Vx ഇവിടെ പൂജ്യമാണ് അതിനർത്ഥം ഈ Rs ലൂടെ കറണ്ട് പ്രവവഹിക്കുന്നില്ല അതിലൂടെ കറണ്ട് പ്രവവഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് അത് നീക്കംചെയ്യാം അത് എന്റെ സർക്യൂട്ടിൽ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല അതിനാൽ Is മൊത്തമായി ഇപ്പോഴും R ലൂടെ പ്രവഹിക്കുന്നു ഞാൻ നേരത്തെ എഴുതിയ സമവാക്യം ഇപ്പോഴും ശരിയാണ് അതിനാൽ ഇതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് വ്യവസ്ഥാപിതമായി കണക്കാക്കാം ഈ V0 ഇപ്പോഴും Is × R ന് തുല്യമാണ് അതിനാൽ ഈ Rs ന് യാതൊരു സ്വാധീനവുമില്ല സർക്യൂട്ടിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് പൂജ്യം ആണെങ്കിൽ ഇത് എല്ലായ്പ്പോഴും സംഭവിക്കും അതിനാൽ ഇത് ഇപ്പോൾ സർക്യൂട്ടിന്റെ ഇൻപുട്ടിനുള്ള മാതൃകയാണ് ഇതിന് ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് Rin ഉണ്ട് അടിസ്ഥാനപരമായി അത് ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ടായ ഈ ടെർമിനലിനും ഗ്രൌണ്ടിനും ഇടയിലുള്ള റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ സർക്യൂട്ടിലേക്ക് യഥാർത്ഥത്തിൽ ഒഴുകുന്ന കറണ്ട് Is×RsRsRin ആണെന്നും Rin പൂജ്യത്തിന് തുല്യമാണെങ്കിൽ അത് Is ന് തുല്യമാണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇൻപുട്ട് പ്രതിരോധം പൂജ്യം ആണെങ്കിൽ കറണ്ട് ഉറവിടം അപൂർണ്ണമാണെങ്കിലും എല്ലാ കറണ്ടും സർക്യൂട്ടിലേക്ക് ഒഴുകുന്നു കൃത്യമായി അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുപോലെ ഞാൻ ഈ സർക്യൂട്ട് എടുത്ത് ഇതിൻറെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിലയിരുത്തട്ടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിലയിരുത്താൻ ഞാൻ Is പൂജ്യം ആയി സജ്ജീകരിച്ചു അതിനാൽ ഇതൊരു ഓപ്പൺ സർക്യൂട്ടായി മാറുന്നു എനിക്ക് ഈ റെസിസ്റ്റൻസ് R ഉണ്ട് ഇപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിലയിരുത്തുന്നതിനായി ഞാൻ ഒരു ടെസ്റ്റ് കറണ്ട് ഘടിപ്പിക്കുന്നു ഇപ്പോൾ Vx ഇവിടെ പൂജ്യം ആണ് കൂടാതെ റെസിസ്റ്ററിലൂടെ കറണ്ട് ഒഴുകുന്നില്ല കാരണം ഓപ് ആമ്പിൻറെ ഇൻപുട്ടിലേക്ക് ഒരു കറണ്ടും ഒഴുകാൻ സാധിക്കില്ല അതിനാൽ ഇവിടെ ഈ വോൾട്ടേജും പൂജ്യം ആണ് അതിനാൽ ഇതിനു കുറുകെയുള്ള വോൾട്ടേജ് വീണ്ടും പൂജ്യമാണ് അതായത് ഈ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള റെസിസ്റ്റൻസ് ആയ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0 വോൾട്ട് ITEST ആണ് അത് പൂജ്യത്തിന് തുല്യമാണ് അതിനാൽ ഇതാണ് കറണ്ടിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടം ഇത് യഥാർത്ഥത്തിൽ 0 ഇൻപുട്ട് റെസിസ്റ്റൻസും 0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഉള്ള കറണ്ടിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടം ആണ് ചിലപ്പോൾ ഈ സർക്യൂട്ട് ചെറുതായി പരിഷ്കരിച്ച രീതിയിൽ ഉപയോഗിക്കാറുണ്ട് അതിനാൽ ഞാൻ വീണ്ടും എന്റെ സർക്യൂട്ട് പരിഗണിക്കട്ടെ Is ന് സമാന്തരമായി ഒരു Rs ഉണ്ടെങ്കിൽ പോലും ഔട്ട്പുട്ട് വോൾട്ടേജുകൾ Is×R ആണെന്ന് നമുക്കറിയാം ഇത് നേരായുള്ള സർക്യൂട്ട് വിശകലനത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ സംയുക്തം കറണ്ട് ഉറവിടത്തിന്റെയും റെസിസ്റ്ററിന്റെയും സമാന്തര സംയുക്തമാണ് നമുക്ക് ഇതിനെ ഒരു നോർട്ടൺ തത്തുല്യമായി കണക്കാക്കാം ഇതിൻറെ തെവെനിൻ തത്തുല്യം എന്നത് റെസിസ്റ്റൻസ്ൻറെയും വോൾട്ടേജ് ഉറവിടത്തിൻറെയും പരമ്പരയാണ് മാത്രമല്ല മുൻപത്തെ നോർട്ടൺ ഉം ഉം തെവെനിൻ ഉം തത്തുല്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് നമുക്കറിയാം ഈ റെസിസ്റ്റൻസ് Rs ന് തുല്യമാണെന്നും കറണ്ടിൻറെ ദിശ തന്നിട്ടുള്ളതിനാൽ ഈ വോൾട്ടേജ് ഉറവിടം IsRs ആണെന്നും ഇവ രണ്ടും കൃത്യമായി തുല്യമാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇപ്പോഴും Is×R ന് തുല്യമാണ് ഞാൻ Is Rs നെ ഒരു വോൾട്ടേജ് ഇൻപുട്ട് Vi ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ അതായത് ഞാൻ ഈ സർക്യൂട്ടിനെ ഒരു വോൾട്ടേജ് ഇൻപുട്ട് Vi യും ചില റെസിസ്റ്റൻസ് Rs ഉം അതിനോട് ബന്ധിപ്പിച്ചിട്ടുള്ളതായി കരുതുന്നു അങ്ങനെയെങ്കിൽ Vi എന്നുള്ളത് IsRs ആയിരിക്കും പിന്നെ Is എന്നത് ViR ആയിരിക്കും ഇത് ഇവിടെ പകരം വയ്ക്കുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് Vi x RRs എന്ന് ലഭിക്കും അതിനാൽ ഈ സർക്യൂട്ടുകൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്നറിയപ്പെടുന്നു ഞാൻ യഥാർത്ഥത്തിൽ തുടങ്ങിയത് കറണ്ട് ഉറവിടത്തിന് സമാന്തരമായി ഒരു റെസിസ്റ്റൻസ് എന്ന ആശയത്തിൽ നിന്നാണ് എന്നാൽ പൊതുവേ ഈ റെസിസ്റ്റൻസ് എന്തു വേണമെങ്കിലും ആകാം ഇത് വോൾട്ടേജ് ഉറവിടത്തിൽ പെട്ടതാണോ അതോ അത് അവിടെ ഉള്ളതാണോ എന്നത് പ്രശ്നമല്ല മൊത്തം റസിസ്റ്റൻസ് Rs ഉം വോൾട്ടേജ് ഉറവിടത്തിൻറെ മൂല്യം Vi യും ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നത് Vi x Rs R ആയിരിക്കും അതിനാൽ ഈ സർക്യൂട്ട് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്നറിയപ്പെടുന്നു ഇത് Vi ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് RRs ×Vi ആയിരിക്കും ഇതിനെ ഇൻവെർട്ടിംഗ് എന്ന് വിളിക്കുന്നു തീർച്ചയായും ഗെയിൻ നെഗറ്റീവായതിനാൽ നിങ്ങൾക്ക് ഇത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറുമായി താരതമ്യം ചെയ്ത് വ്യത്യാസം കണ്ടു പിടിക്കാം ഞാൻ ഇവയെ R1 R2 Vi V0 എന്നിവ ഉപയോഗിച്ച് വിളിക്കുകയാണെങ്കിൽ V0 എന്നത് 1 R2R1 × V i ആയിരിക്കും രണ്ട് സാഹചര്യങ്ങളിലും ഗെയിൻ ആശ്രയിക്കുന്നത് റെസിസ്റ്ററിന്റെ അനുപാതത്തെ ആണ് യഥാർത്ഥത്തിൽ ഓപ് ആമ്പിനെ ആശ്രയിക്കുന്നില്ല മാതൃകാപരമായ ഓപ് ആമ്പ് ആണെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന് ഗെയിൻ 1 R2R1 ആയിരിക്കും ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന് ഗെയിൻ RRs ആയിരിക്കും ഓപ് ആമ്പിന്റെ ഗെയിൻ പരിമിതമാണെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനായി ഞങ്ങൾ ചെയ്ത വിശകലനം ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനും നിങ്ങൾക്ക് ആവർത്തിക്കാം ഗെയിൻ അതിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ടാകും എങ്കിലും ഗെയിൻ വളരെ വലുതാണെങ്കിൽ വ്യത്യാസം വളരെ ചെറുതായിരിക്കും